ബയോറിയാക്ടറുകളെ കുറിച്ചുള്ള ഈ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ലെക്ചർ നമ്പർ 5 ലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഒരു ബയോ റിയാക്ടറിൽ നിന്നുള്ള രണ്ട് പ്രധാന ഉൽപ്പന്നങ്ങൾ കോശങ്ങൾ തന്നെയാകാം അല്ലെങ്കിൽ കോശങ്ങളാൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആകാമെന്നു നമ്മൾ ആ സമയം പറഞ്ഞു ഈ പ്രഭാഷണത്തിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി റിഫൈൻ ചെയ്യും നിർദ്ദിഷ്ട വളർച്ചാ നിരക്കിന്റെ വ്യതിയാനത്തിനായുള്ള വിവിധ മോഡലുകളും സബ്സ്ട്രേറ്റ് സാന്ദ്രതയോടും ഉൽപ്പന്ന സാന്ദ്രതയോടും അടിസ്ഥാനപരമായി ഗ്രോത്ത് കൈനെറ്റിക്സ് മോഡലുകളും നമ്മൾ കണ്ടു പ്രോഡക്റ്റ് ഫോർമേഷൻ കൈനെറ്റിക്സിനായുള്ള ല്യൂഡെക്കിംഗ് പൈററ്റ് മോഡലും നമ്മൾ കണ്ടു പിന്നെ യിൽഡ് കോയിഫിഷ്യന്റ മെയിൻറ്റെനൻസ് എന്നിങ്ങനെയുള്ള ചില ആശയങ്ങൾ നമ്മൾ കണ്ടു അവിടെയാണ് അവസാന പ്രഭാഷണത്തിൽ നമ്മൾ നിർത്തിയത് നമുക്ക് ഈ പ്രഭാഷണം എൻസൈമുകളെ കുറിച്ചു പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ബയോ റിയാക്ടറിൽ നിന്നുള്ള ഫലങ്ങൾ അല്പം മെച്ചപ്പെടുത്തുമെന്ന് നമ്മൾ പറഞ്ഞു കോശങ്ങൾ സ്വയവും പിന്നെ കോശങ്ങളാൽ നിർമിക്കപെട്ട ഉൽപ്പന്നങ്ങളും കോശങ്ങളാൽ നിർമിക്കപ്പെടുന്ന ഉത്പന്നങ്ങൾ അത് ഒരു എൻസൈം മീഡിയെറ്റെഡ് റിയാക്ഷന്റെ ഫലമായും ഉണ്ടാകാമെന്നു നമ്മൾ മുമ്പ് പറഞ്ഞു എൻസൈമുകൾ സാധാരണയായി പ്രോട്ടീനുകൾ അത് ബയോറിയാക്ടറുകളിലെ സൂക്ഷ്മാണുക്കൾ ഉൽപാദിപ്പിക്കുന്നു അത് വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു അതാണ് എൻസൈമുകളിലുള്ള നമ്മുടെ താൽപ്പര്യം എൻസൈമുകൾ ഉത്പന്നങ്ങൾ ഉണ്ടാകുന്നതിൽ മീഡിയെറ്റ് ചെയ്യുന്നു അതായത് നമുക്ക് A മുതൽ B വരെയുള്ള പരിവർത്തനത്തിനും മാറ്റുമെന്നും പറയാം B എന്നത് Aയെക്കാൾ നമ്മൾ മുൻഗണന കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാം പിന്നെ എൻസൈമുകളിലൂടെയുള്ള പരിവർത്തനം എൻസൈമുകളിലൂടെയുള്ള ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നിവ ഒരു ബയോ റിയാക്ടറിൽ നടത്താം എന്നാൽ അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എൻസൈമുകൾ നോക്കാം ഇവ സൂക്ഷ്മാണുക്കൾ ഉൽപാദിപ്പിക്കുകയും വ്യവസായത്തിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഞാൻ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തരുന്നു ഈ ഉപയോഗങ്ങളെല്ലാം കുറച്ച് പതിറ്റാണ്ടുകളായ നിലവിൽ ഉള്ളതാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് വ്യവസായവും അവിടെ ഉപയോഗിച്ച എൻസൈമുകളും ആണ് ഡിറ്റർജന്റ് വ്യവസായത്തിൽ ഇവ വളരെയധികം ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും ഡിറ്റർജന്റുകളുടെ ശുചീകരണ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് പ്രോട്ടീസുകൾ അമിലേസ് തുടങ്ങിയവ ഉപയോഗിക്കുന്നു ബേക്കിംഗ് വ്യവസായത്തിൽ അമിലേസുകൾ ഉപയോഗിക്കുന്നു മദ്യനിർമ്മാണ വ്യവസായത്തിൽ അമിലേസുകളും ഗ്ലൂക്കനേസുകളും പ്രോട്ടീസുകളും ഉപയോഗിക്കുന്നു ക്ഷീര വ്യവസായത്തിൽ റെന്നിൻ ലിപേസ് ലാക്റ്റേസ് എന്നിവ ഉപയോഗിക്കുന്നു അന്നജം വ്യവസായത്തിൽ അമിലേസുകൾ ഗ്ലൂക്കോസ് ഐസോമെറേസ് എന്നിവ ഉപയോഗിക്കുന്നു ഓർക്കുക അന്നജം ഗ്ലൂക്കോസായി വിഭജിച്ച് കൂടുതൽ ഫെർമെന്റഷൻ നടത്തുന്നു അത് നടപ്പിലാക്കാൻ കഴിയുന്നവയാണ് അമിലേസുകൾ ടെക്സ്റ്റൈൽ വ്യവസായത്തിൽ അമിലേസ് ലെതർ വ്യവസായത്തിൽ ട്രിപ്സിൻ പ്രോട്ടീസുകൾ എൻസൈമുകളുടെ കോക്ടെയിലുകൾ എന്നിവയും ഉപയോഗിക്കാം ലെതർ വ്യവസായത്തിൽ എൻസൈമുകളുടെ മിശ്രിതം ഉപയോഗിക്കാം ഫാർമസ്യൂട്ടിക്കൽസിൽ ട്രിപ്സിൻ ഇതൊക്കെ വ്യവസായത്തിലെ എൻസൈമുകളുടെ ഉപയോഗത്തിന്റെ നല്ലൊരു ഉദാഹരണമാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്ന ഏജന്റുകളായി എൻസൈമുകൾ ബയോ റിയാക്ടറുകളിൽ ഉപയോഗിക്കാൻ കഴിയും മാത്രമല്ല ആ ബയോറിയാക്ടറിന് ഒരു പ്രത്യേക നാമമുണ്ട് അത്തരം ബയോറിയാക്ടറുകളെ എൻസൈം ബയോറിയാക്ടറുകൾ എന്ന് വിളിക്കുന്നു ഇവിടെ ഉദാഹരണങ്ങൾ 6 അമിനോ പെൻസിലാനിക് ആസിഡിനുള്ള പെൻസിലിൻ അസൈലേസ് അല്ലെങ്കിൽ 6 APA പെൻസിലിൻ Gയിൽ നിന്നുള്ള ഉത്പാദനം പെൻസിലിൻ G പെൻസിലിൻ അസൈലേസ് വഴി 6 APA ആയിട്ട് മാറ്റുന്നു 6 APA വ്യാപകമായി ഉപയോഗിക്കുന്നു സ്വീറ്റ് ഇൻവെർട്ട് ഷുഗർ ഉത്പാദിപ്പിക്കാൻ ഗ്ലൂക്കോസ് ഐസോമെറേസ് ഉപയോഗിക്കുന്നു വ്യവസായത്തിലും ഭക്ഷ്യ വ്യവസായത്തിലും പാനീയ വ്യവസായത്തിലും ഇത് വളരെയധികം ഉപയോഗിക്കുന്നു മുമ്പത്തെപ്പോലെ എൻസൈം റിയാക്ഷൻ കയ്നെറ്റിക്സിനെ കുറച്ചു നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം നേരത്തെ നമ്മൾ കയ്നെറ്റിക്സ് എന്തെന്നു നോക്കിയിരുന്നു വളർച്ചയുടെ റേറ്റ് ഉൽപ്പന്നങ്ങളുടെ രൂപീകരണ റേറ്റ് എന്നിവ നമ്മൾ പരിശോധിച്ചു ഇവിടെ കൈനെറ്റിക്സിനെ കുറച്ചു നല്ല ധാരണ ഉണ്ടായിരിക്കണം മാത്രമല്ല എൻസൈം ബയോ റിയാക്ടറുകളുടെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും അനിവാര്യമായിത്തീരുന്നു അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ പ്രധാനമായും നമ്മൾ എൻസൈം കയ്നെറ്റിക്സ് പരിശോധിക്കും നമുക്ക് കാര്യങ്ങൾ കഴിയുന്നത്ര ലളിതമാക്കാം ഉൽപ്പന്നങ്ങൾ രൂപീകരിക്കുന്നതിന് ഒരു എൻസൈം എങ്ങനെ സഹായമാകുന്നു അല്ലെങ്കിൽ ഒരു എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ഉൽപ്പന്നം എങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം എൻസൈം പ്രോസസിനെ എങ്ങനെ മീഡിയെറ്റ് ചെയുന്നു ഇത് എങ്ങനെ പ്രോസസ്സിനെ ഉൾക്കൊള്ളും ലളിതമായ എൻസൈമാറ്റിക് പ്രതിപ്രവർത്തനങ്ങൾക്ക് വിശാലമായ സ്വീകാര്യത ഉള്ള ഒരു സംവിധാനം ഇനിപ്പറയുന്നവയാണ് സബ്സ്ട്രേറ്റ് S നെ ഉൽപന്നം P യിലേക്ക് പരിവർത്തനം ചെയ്യുന്ന എൻസൈമാണ് E എങ്കിൽ റിവേഴ്സ് ഫാഷനിൽ ഇവിടെ കണക്കാക്കപ്പെടുന്ന സംവിധാനം എൻസൈം സബ്സ്ട്രേറ്റ് ആയി പ്രതിപ്രവർത്തിക്കുന്നു ഫോർവേഡ് റിയാക്ഷന്റെ നിരക്ക് k1 ആണ് ഇവിടെ ബാക്ക് വേർഡ് റിയാക്ഷൻ നിരക്ക് k 2 ആണ് ഇത് ഒരു റിവേഴ്സ്ബിൽ റിയാക്ഷൻ ആണ് ഇത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് ആണ് കൂടാതെ ഈ റിയാക്ഷൻ വേഗതയുള്ളതാണ് K1 വളരെ ഉയർന്ന സന്തുലിത റിയാക്ഷൻ ആണ് എന്നിട്ട് ഈ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്യുന്നു കൂടുതൽ റിയാക്ട് ചെയുകയും എൻസൈമിലേക്കും ഉൽപ്പന്നത്തിലേക്കും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ റേറ്റ് സ്ഥിരാങ്കം k 3 ആണ് സിംപിൾ എൻസൈം മീഡിയേറ്റഡ് റിയാക്ഷന്റെ മൊത്തത്തിലുള്ള സംവിധാനമാണിത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു അടച്ച പാത്രത്തിനുള്ളിൽ സംഭവിക്കുന്നു ഒരു ബാച്ച് റിയാക്റ്റർ നമ്മുടെ സിസ്റ്റമായി അതിനെ നമുക്ക് എടുക്കാം ഉൽപ്പന്നത്തിൽ ഒരു മാസ് ബാലൻസ് എഴുതുകയാണെങ്കിൽ നമ്മൾ ഉൽപ്പന്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു കൂടാതെ ഉൽപ്പന്നത്തിനായി ഒരു മാസ് ബാലൻസ് എഴുതുക അത് ഉൽപ്പന്നത്തിന്റെ ഉൽപാദന നിരക്ക് നൽകും അത് ഇവിടെ നൽകിയിരിക്കുന്നു ഉപഭോഗനിരക്ക് കുറയ്ക്കുകയാണ് വേണ്ടത് ഓർമ്മിക്കുക ഇതൊരു ബാച്ച് റിയാക്ഷൻ ആണ് അതിനാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പദങ്ങളും പൂജ്യമാണ് അതിനാൽ മറ്റൊന്ന് ഈ രണ്ട് പദങ്ങളും ഉണ്ടാവില്ല മാത്രമല്ല ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ജനറേഷനും ഉപഭോഗ നിബന്ധനകളും മാത്രമേ നമുക്ക് ഉള്ളൂ അതിനാൽ ഉൽപാദന നിരക്ക് മൈനസ് ഉൽപ്പന്നത്തിന്റെ ഉപഭോഗ നിരക്ക് ഉൽപ്പന്നത്തിന്റെ ശേഖരണ നിരക്കിന് തുല്യമാണ് ഇതെല്ലാം മാസ്സ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ rgP rcPddt ഉൽപ്പന്നത്തിന്റെ ഉപഭോഗം ഇല്ലെന്ന് നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഉൽപാദന നിരക്ക് ഇവിടെ ഉൽപ്പന്നത്തിന്റെ ശേഖരണനിരക്കിന് തുല്യമാണ് ഉത്പാദന നിരക്ക് അതായത് അക്യുമിലേഷൻ നിരക്ക് rgPddt കെമിക്കൽ കൈനെറ്റിക്സിൽ നിന്ന് നമുക്കറിയാം ഒരു യൂണിറ്റ് വോളിയം അടിസ്ഥാനത്തിലുള്ള നിരക്ക് നമ്മൾ വിളിക്കുന്ന വോള്യൂമെട്രിക് നിരക്ക് ഒരു യൂണിറ്റ് വോളിയത്തിന് r g P ആണ് ഒരു യൂണിറ്റ് വോളിയം അടിസ്ഥാനത്തിൽ നമ്മുടെ നിരക്കുകൾ എഴുതുന്നതിനുള്ള സാധാരണ രീതിയാണിത് ഈ നിരക്ക് മാസ് അടിസ്ഥാനത്തിലാണ് അതായത് മാസ്സ് പെർ ടൈം ഇത് മാസ്സ് പെർ വോളിയം പെർ ടൈം ആണ് നമ്മുടെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് പെർ യൂണിറ്റ് വോളിയം അടിസ്ഥാനത്തിലുമുള്ള നിരക്ക് k3 എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫസ്റ്റ് ഓർഡർ തരത്തിൽ ഉള്ള ഒന്നാണ് rgPk3 ES അതാണ് മുമ്പത്തെ സമവാക്യം അതിനാൽ നമുക്ക് താല്പര്യം ഉള്ള മൂല്യം ലഭിക്കാൻ അതായത് മാസ് പെർ ടൈംനമുക്ക് ഇരുവശവും സിസ്റ്റത്തിന്റെ വോളിയം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു വോള്യൂമെട്രിക് അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത് ഒരു മാസ് അടിസ്ഥാനത്തിലാണ് സാന്ദ്രത മാസ്സ് പെർ വോളിയം ആണ് നമ്മൾ അത് ഗുണിച്ചാൽ നമുക്ക് മാസ്സ് അടിസ്ഥാനത്തിൽ നിരക്ക് ലഭിക്കും ഒരു മാസ് അടിസ്ഥാനത്തിൽ ഉൽപന്ന ഉൽപാദന നിരക്കും എളുപ്പത്തിന് നമുക്ക് അതിനെ r P എന്ന് വിളിക്കാം അത് k 3 കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വോളിയം V rgPrPk3 ES V ഇനി നമുക്ക് പാത്രത്തിലെ എൻസൈമിനായി ഒരു മാസ് ബാലൻസ് എഴുതാം നേരത്തെ നമ്മൾ ഉൽപ്പന്നത്തിനായി ഒരു മാസ് ബാലൻസ് എഴുതി ഇപ്പോൾ നമുക്ക് എൻസൈമിൽ ഒരു മാസ് ബാലൻസ് എഴുതാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ താൽപ്പര്യമുള്ള ഏത് സമയത്തും എൻസൈം ഒന്നുകിൽ ഫ്രീ ആണ് അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് നമ്മുടെ സംവിധാനത്തിൽ നമ്മൾ കണ്ടതുപോലെ അതിനാൽ മൊത്തം എൻസൈമിന്റെ മാസ് എന്നത് Et അതു മൊത്തം എൻസൈമിന്റെ മാസ്സ് V ആണ് മൊത്തം എൻസൈമിന്റെ മാസ്സ് എന്നത് ഫ്രീ എൻസൈമിന്റെ മാസ് എൻസൈമ്മ് മാസ് അത് എൻസൈമ്മ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി ബൌണ്ട് ചെയ്തിരിക്കുന്നു അതായത് ഫ്രീ എൻസൈമിന്റെ മാസ് എന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ എൻസൈമ് വോളിയം ഇതുപോലത്തെ വോളിയം പ്ലസ് മാസ് ഓഫ് എൻസൈമ് അത് എൻസൈമ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി ബന്ധിച്ചിരിക്കുന്നു അത് എൻസൈമ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വോളിയം ആണ് EtVEVESV അതിനാൽ ഇത് മാസ് ബാലൻസ് മാത്രമാണ് ഇതിനെ ഇക്വെറ്റ് ചെയാം സാന്ദ്രതയ്ക്ക് കഴിയില്ല സാന്ദ്രത നേരിട്ട് തുല്യമാക്കാനാവില്ല പക്ഷേ മാസ്സ് തുല്യമാക്കാം ഇപ്പോൾ എല്ലാ വോള്യങ്ങളും തുല്യമായതിനാൽ നമുക്ക് സാന്ദ്രതയിൽ തുല്യത ലഭിക്കുന്നു കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ എൻസൈമ് എന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ എൻസൈമ് കോൺസെൻട്രേഷൻ ഓഫ് ബൌണ്ട് എൻസൈമ് അല്ലെകിൽ ബൌണ്ട് ആസ് എൻസൈമ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് EtEES അതിനാൽ ഇത് ഈ സമവാക്യത്തിന്റെ ട്രാൻസ്പൊസിഷൻ ആണ് എൻസൈമ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്ന്റെ സാന്ദ്രത എന്നത് മൊത്തം എൻസൈമ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ എൻസൈമ് ആണ് ESEt E ഇപ്പോൾനമ്മൾ സാന്ദ്രത പ്ലോട്ട് ചെയുകയാണെകിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയട്ടെ ഉത്പന്നവും എൻസൈമ് സബ്സ്ട്രേറ്റ് സാന്ദ്രതയും അത് വേർസ്സ് ടൈം റിയാക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇതുപോലെയായിരിക്കും സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്തു ഉൽപ്പന്നം നൽകുന്നു അതിനാൽ അത് താഴോട്ട് പോകുന്നു ഉൽപ്പന്നം രൂപപ്പെടാൻ പോകുന്നു അതിനാൽ അത് മുകളിലോട്ട് പോകുന്നു എൻസൈമ് സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇതുപോലെയൊക്കെയാണ് ബിഹെവ് ചെയുന്നത് വളരെ ചെറിയ സമയങ്ങളിൽ ഒരു വർദ്ധനവ് ഉണ്ടാകുന്നു തുടർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ സാന്ദ്രതയിൽ മാറ്റമില്ല അതിനാൽ ഇവിടെ വളരെ ചെറിയ സമയങ്ങൾ കൂടാതെ ആദ്യകാലങ്ങളിൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് സാന്ദ്രത മാറുന്നില്ല അതിനാൽ നമുക്ക് ഈ വശങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ സമയ പരിധി പിന്നെ നമുക്ക് പറയാം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ ശേഖരണ നിരക്ക് പൂജ്യമാണ് കാരണം ഇത് അടിഞ്ഞുകൂടുകയാണെങ്കിൽ അത് ഒന്നുകിൽ താഴോട്ട് പോകണം ക്ഷമിക്കണം അത് ഒന്നുകിൽ മുകളിലേക്ക് പോകണം അല്ലെങ്കിൽ താഴേക്ക് പോകണം അത് ഇവിടെ സംഭവിക്കുന്നില്ല അതിനാൽ ഇത് പൂജ്യത്തിന് തുല്യമായി കണക്കാക്കാം ഇത് നേരത്തെ ഉണ്ടായ അതെ ഇക്വഷൻ ആണ് അതായത് നേരത്തെ ഉണ്ടായ ജനറേഷൻ റേറ്റ് ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് മൈനസ് കൺസ്പ്പ്ഷൻ റേറ്റ് ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സും മെറ്റീരിയൽ ബാലൻസും അത് ഈ സിസ്റ്റത്തിൽ എൻസൈം സബ്സ്ട്രേറ്റിന്റെ മാസിന്റെ അക്യുമുലേഷന് തുല്യം ആണ് സാന്ദ്രതയിൽ മാറ്റം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് പൂജ്യമായി മാറുന്നു rgES rcESdmESdt≅0 ഹൈസ്കൂളിൽ നിന്നുള്ള എൻസൈം കൈനെറ്റിക്സ് പറ്റിയോ അല്ലെങ്കിൽ പ്രീ എഞ്ചിനീയറിംഗ് തയ്യാറെടുപ്പുകളോ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇപ്പോൾ അതു നിങ്ങൾ കണ്ടിരിക്കാം ഈ ആശയം നോക്കാനുള്ള പരിമിതമായ മാർഗ്ഗം മാത്രമാണ് ഇത് വാസ്തവത്തിൽ ഈ ആശയം വളരെ ശക്തമാണ് ഈ പ്രത്യേക കാര്യം അതിന്റെ പ്രത്യാഘാതകൾ നമുക്ക് പൊതുവായി പറയാം അത് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഞാൻ അത് പറയുന്നതിനുമുമ്പ് ഇതും പറയണം ഇവിടെ സാന്ദ്രത മാറില്ല അതിനാൽ ഈ നിരക്ക് പൂജ്യമാണ് അതിനാൽ നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് സ്യൂഡോ സ്റ്റെഡി സ്റ്റേറ്റിൽ ആണെന്ന് അനുമാനിക്കാം അതാണ് PSS എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്യുഡോ സ്റ്റെഡി സ്റ്റേറ്റ് ഇതാണ് ഒരു ബാച്ച് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഈ ആശയം മികച്ചതാണ് നമുക്ക് ആ ആശയം സാമാന്യവൽക്കരിക്കാം ആ ആശയം സാമാന്യവൽക്കരിക്കുന്നതിന് ഒരു കാറിനു വേണ്ടി ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നു എന്നൊരു സാങ്കൽപ്പിക ഉദാഹരണം നമുക്ക് നോക്കാം നമ്മൾ എഞ്ചിൻ ഒരുമിച്ച് ചേർക്കുന്നു അതായത് ബോൾട്ട് മുതൽ എഞ്ചിൻ വരെ ഒരു ബോൾട്ട് നിർമ്മാണത്തിന് ആവശ്യമായ സമയം ഏകദേശം 5 സെക്കൻഡ് ആണെന്ന് നമുക്ക് പറയാം ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള സമയം ശരാശരി ഒരു മണിക്കൂറാണെന്ന് നമുക്ക് പറയാം ഇത് ശരാശരി 5 സെക്കൻഡ് ആണ് അത് 6 സെക്കൻഡ് 7 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ് എന്നിങ്ങനെ ആണ് അല്ലെങ്കിൽ 2 സെക്കൻഡ് എന്നിങ്ങനെയാകാം അത് വ്യത്യാസപ്പെടാം ബോൾട്ടിന്റെ നിർമ്മാണത്തിലെ സ്ഥിരത ഇലാത്ത വശം അതാണ് ഒരു ബോൾട്ട് നിർമ്മിക്കാൻ 5 സെക്കൻഡോ 7 സെക്കൻഡോ 3 സെക്കൻഡോ എടുക്കുമെങ്കിലും അതു ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ എടുക്കുന്ന സമയത്തെ ബാധിക്കില്ല ഇത് ഒരു മണിക്കൂർ എന്ന ക്രമത്തിലാണ് ഈ വ്യതിയാനം നിമിഷങ്ങൾക്കുള്ളിൽ എഞ്ചിൻ നിർമ്മിക്കുന്ന നിരക്കിനെ ബാധിക്കില്ല സ്ഥിരമല്ലാത്ത സ്വഭാവം വ്യത്യസ്തമായ ബോൾട്ട് നിർമ്മാണ സമയം എഞ്ചിൻ നിർമ്മാണത്തിന്റെ കൈനെറ്റിക്സിനെ ബാധിക്കില്ല കാരണം ഇവ രണ്ടും വേർതിരിക്കപ്പെടുന്നു അതായത് അവയുടെ സ്വഭാവ സവിശേഷതകളാൽ ഇത് നിമിഷങ്ങൾക്കുള്ളിലാണ് നമ്മൾ നിർമ്മിക്കുന്നുത് ഇത് ആയിരക്കണക്കിന് സെക്കൻഡ്സ് എടുക്കുന്നു 60 60 അതായത് ഒരു മണിക്കൂർ 3600 സെക്കൻഡ് എടുക്കും അതിനാൽ സ്വഭാവവ്യവസ്ഥകൾ സമയം പരക്കെ വ്യത്യസ്തമാണെങ്കിൽ വേഗത കുറഞ്ഞ പ്രോസസ്സിന്റെ അസ്ഥിരമായ സ്വഭാവം മന്ദഗതിയിലുള്ള പ്രോസസ്സിന്റെ കൈനെറ്റിക്സിനെ ബാധിക്കില്ല അതായത് നമ്മുടെ താൽപ്പര്യം മന്ദഗതിയിലുള്ള പ്രോസസ്സിൽ ആണെകിൽ അതിനാൽ മന്ദഗതിയിലുള്ള പ്രോസസ്സ് നോക്കുമ്പോൾ വേഗതയെറിയ പ്രോസസ്സ് നമ്മൾ പരിഗണയിൽ എടുക്കുന്നു അതായത് സ്യുഡോ സ്റ്റെഡി സ്റ്റേറ്റ് യാഥാർതത്തിൽ അതു മാറാം പക്ഷെ ആ മാറ്റം പ്രോസസ്സിനെ ബാധിക്കില്ല അതായത് മന്ദഗതിയിലുള്ള പ്രോസസ്സ് അതിനാൽ വേഗതയേറിയ പ്രോസസ്സ് താരതമ്യം ചെയുമ്പോൾ സ്യുഡോ സ്റ്റെഡി സ്റ്റേറ്റിൽ ആകാം മാത്രമല്ല ഇത് വിശാലമായ അപ്ലിക്കേഷൻസ് ഉള്ള ഒരു ആശയമാണ് നമുക്ക് ഈ രീതിയിൽ അതു നോക്കാനും കഴിയും ഒരു ഉൽപ്പന്നം രൂപപ്പെടുന്ന സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ വളരെ വേഗതയുള്ളതാണ് അതിനാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് സ്യുഡോ സ്റ്റെഡി സ്റ്റേറ്റിൽ ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ നമ്മൾ സ്യുഡോ സ്റ്റെഡി സ്റ്റേറ്റ് ധാരണകൾ ഉപയോഗിക്കുമ്പോൾ സ്വഭാവരീതികളെ അടിസ്ഥാനമാക്കി പരക്കെ വ്യസ്ത്യസ്തമായ രണ്ട് പ്രോസസ്സ് നമുക്ക് ആവശ്യമാണ് നമുക്ക് അതു പിന്നീട് നോക്കാം എന്നാൽ ഇപ്പോൾഅത് ഏത് രീതിയിൽ ആയാലും നമുക്ക് മനസിലാക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഇത് കയ്നെറ്റിക് സമവാക്യത്തിന്റെ ഡെറിവേഷനെ ബാധിക്കില്ല നമുക്ക് ഇതിലേക്ക് മടങ്ങാം നമുക്ക് എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഉണ്ട് അത് വിപരീതത നൽകുന്നു ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പിന്നെ ഇറവെഴ്സിബിലി ഒരു എൻസൈം പിന്നെയൊരു ഉൽപന്നവും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ ഉത്പാദന നിരക്ക് നമ്മൾ ഇവിടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു പക്ഷെ k 1 എൻസൈം കോൺസെൻട്രേഷൻ ആൻഡ് സബ്സ്ട്രേറ്റ് വോളിയം ഇത് ഒരു വോള്യൂമെട്രിക് അടിസ്ഥാനത്തിലാണ് ഇത് മാസ് അടിസ്ഥാനത്തിലാണ് അതിനാൽ നാം അതിനെ വോളിയം കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് rgESk1ESV കൂടാതെ നമ്മൾ ഇവിടെ കാണുന്നതുപോലെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ ഉപഭോഗത്തിന്റെ നിരക്ക് അതു റിവേഴ്സ് റിയാക്ഷൻ ആയി ഉപഭോഗം ചെയ്യപ്പെടുന്നു അതിന്റെ നിരക്ക് എന്നത് കോൺസ്റ്റന്റ് k2 ആണ് പിന്നെ റിയാക്ഷൻ നിരക്ക് കോൺസ്റ്റന്റ് k 3യും ഉപഭോഗം എന്നത് k 2 കോൺസെൻട്രേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വോളിയം ആണ് rcESk2ESVk3ESV ഇതാണ് ഉത്പാദന നിരക്ക് ഉപഭോഗ നിരക്ക് അതിനാൽ മാസ്സ് ബാലൻസ് എന്നത് ഉൽപാദന നിരക്ക് മൈനസ് ഉപഭോഗ നിരക്ക് ആണ് അക്യുമിലേഷൻ നിരക്ക് പൂജ്യമാണ് സ്യുഡോ സ്റ്റഡി സ്റ്റേറ്റ് അനുമാനത്തിൽ നമ്മൾ ഇതിനകം കണ്ടത് ഇതാണ് അതിനാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സിന്റെ ഉത്പാദന നിരക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സിന്റെ ഉപഭോഗ നിരക്കിന് തുല്യമാണ് കാരണം ഇത് മുമ്പത്തെ ഘട്ടത്തിൽ പൂജ്യത്തിന് തുല്യമാണ് rgES rcESdmESdt≅0 rgESrcES നിരക്കിനെ സാന്ദ്രത കൊണ്ട് റീപ്ലേസ് ചെയുന്നു അതായത് K 1 E S ഇത് രണ്ടും സാന്ദ്രത ആണ് അതായത് സാന്ദ്രത വോളിയം അതു ഈക്വല്സ് K2 എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ വോളിയം K3 എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ വോളിയം k1ESVk2ESVk3ESV വോള്യങ്ങൾ തുല്യമാണ് അതിനാൽ അവ വേണ്ടാന്നു വെക്കാൻ കഴിയും അതിനാൽ നമുക്ക് k 1 E S ഈക്വല്സ് k 2 ES k 2 ES k 3 ES ലഭിക്കുന്നു k1ESk2ESk3ES അതു ഒരേ ഈക്വേഷൻ ആണ് k1ESk2ESk3ES നമ്മൾ ഇത് മാറ്റുകയാണ് നമ്മൾ എല്ലാ k 1 E ശേഖരിക്കുന്നു E അറിയാൻ പ്രയാസമാണ് അതേസമയം E t നമുക്ക് ഹാൻഡിൽ ചെയാം അതിനാൽ നമുക്ക് E എന്നത് Et യുടെയും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്ന്റെയും വാക്യത്തിൽ എഴുതാം എൻസൈമിലെ മാസ് ബാലൻസിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിചേർന്നത് നമുക്ക് തിരിച്ചു പോയി അത് പരിശോധിക്കാം k 1 Et എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് S ലേക്ക് ഇത് ഇവിടെ സാധാരണമാണ് അതിനാൽ k 2 k 3 ES ലേക്ക് k1Et ESSk2k3ES ആൾജിബ്രയുടെ അല്പം കൂടി നോക്കാം ഞാൻ ഈ S ബ്രാക്കറ്റിനുള്ളിൽ എടുക്കുകയാണ് തുടർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സുള്ള പദങ്ങൾ ഞാൻ സംയോജിപ്പിക്കുകയാണ് അതിനാൽ k 2 k 3 എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലേക്കും പ്ലസ് k 1 എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് S ആയി മാറുന്നു അതിനാൽ നമുക്ക് ഇത് എഴുതാം ഇടത് വശം അതേപോലെ തന്നെ നിൽക്കുന്നു വലതുവശത്ത് നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസൺട്രേഷൻ കോമൺ ഔട്ട് എടുത്താൽ k 2 k 3 ഇവിടെ നിന്ന് k 1 S എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഔട്ട് ആയി അതിനാൽ ഇവിടെ k1 S 1 ആണ് അതുകൊണ്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഇടത് വശത്അതിനെ ഫാക്ടർ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു k 2 k 3 k 1 ടൈംസ് S ആണ് k1EtSk2k3ESk1ESS k1EtSk2k3k1SES k1EtSk2k3k1SES ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും k 1 കൊണ്ട് ഹരിച്ചാൽ k 1 ഇവിടെ നിന്ന് ഇല്ലാതാവുന്നു എന്ന് നമുക്ക് മനസിലാകും അതിനാൽ Et S പിന്നെ ഇവിടെ k 2 k 3 k1 S എന്നാണ് ഇവിടെ ഒരു k 1 ഉണ്ട് അത് ക്യാൻസൽ ആകുന്നു S ഈക്വല്സ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ ആണ് EtSk2k3k1SES അതു ഇതിന് തുല്യം ആണ് EtSk2k3k1SES നമ്മൾ k2 k3 k 1 എന്നത് ചില ക്യാപിറ്റൽ Km എന്ന് വിളിക്കുകയാണെങ്കിൽ അതേ സമവാക്യം ഇതുപോലെ എഴുതാം E t S K m S എന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷനു തുല്യമാണ് EtSKmSES നമ്മൾ നേരത്തെ കണ്ടു അതായത് ഉൽപന്ന രൂപീകരണത്തിന്റെ നിരക്ക് ഒരു മാസ്സിന്റെ തോത് അനുസരിച്ച് നോക്കുക ആണെൻകിൽ k3 ES വോളിയം ആണ് നിങ്ങൾക്ക് തിരിച്ചു പോയി സമവാക്യം നോക്കാം rPk3 ES V അതിനാൽമുകളിൽ നിന്നും നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷനു സബ്സ്റ്റിട്യൂട്ട് ചെയ്യാം നമുക്ക് ഉൽപന്ന രൂപീകരണത്തിന്റെ നിരക്ക് ലഭിക്കും അതായത് k 3 Ets Km S അതും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ ടൈംസ് V Substituting rPk3 EtSKmS എന്നിട്ട് നമ്മൾ k3 E t ആണെന്ന് പറയുക ആണെൻകിൽ k 3 ടോട്ടൽ എൻസൈം കോൺസെൻട്രേഷൻ അതിനെ നമ്മൾ vm എന്ന് വിളിക്കുന്നുവെങ്കിൽr P എന്നത് vm S K m S V ആകും r P ഒരു മാസിന്റെ അടിസ്ഥാനത്തിലാണെന്ന കാര്യം ശ്രദ്ധിക്കുക rPvmSKmSV where vmk3Et rp പെർ യൂണിറ്റ് വോളിയം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് പരിചിതമായ പദാവലിക്ക് അനുസൃതമായി അതിനെ vഎന്ന് വിളിക്കാം അതിനാൽ vഈക്വല്സ് v mS K m S ആണ് rPpuvvvmSKmS ഇത് പരിചിതമായി തോന്നുന്നുണ്ടോ തീർച്ചയായും ഉണ്ട് ഇതാണ് അറിയപ്പെടുന്ന മൈക്കിളിസ് മെന്റൻ സമവാക്യം സിംഗിൾ ലിങ്ക് എൻസൈം സിംഗിൾ സബ്സ്ട്രേറ്റ് കേസിനുള്ള ഏറ്റവും ലളിതമായ എൻസൈം കയ്നെറ്റിക് സമവാക്യമാണിത് ഇത് എൻസൈമും സബ്സ്ട്രേറ്റും റിവേഴ്സിബിൾ ഫാഷനിൽ പരസ്പരം റിയാക്ട് ചെയ്യുന്നു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് രൂപപ്പെടുത്താൻ ഇത് നമുക്ക് ഉൽപ്പന്നവും എൻസൈമും തിരികെ നൽകും അതിനാൽ ഇത് v ഈക്വല്സ് vm SKs S ആണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കണ്ട എന്തെങ്കിലും ആയിട്ട് സമവാക്യത്തിന്റെ ഈ രൂപം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ അത് മനസ്സിൽ വയ്ക്കുക നമ്മൾ അതിലേക്ക് മടങ്ങും ശരി അതിനാൽ ഇതാണ് നമുക്ക് ലഭിച്ചത് v ഈക്വല്സ് vm S K m S ആണ് ഇവിടെ vm ഈക്വല്സ് k 3 E total അല്ലെകിൽ Et അതിന്ടെ ഒപ്പം K m എന്നത് k 2 k 3 k 1 ആണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇത് കണ്ട സ്ഥലം ഓർമ്മിക്കുന്നോ നിങ്ങൾ V വേർസസ് S പ്ലോട്ട് ചെയുകയാണെകിൽ പ്രതിപ്രവർത്തനത്തിന്റെ നിരക്ക് പ്രതിപ്രവർത്തനത്തിന്റെ വോള്യൂമെട്രിക് നിരക്ക് അതോടു കൂടിയ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും നമുക്ക് ചതുരാകൃതിയിലുള്ള ഒരു പരാബോള ലഭിക്കും അതെ മോണോഡ് സമവാക്യത്തിന് ലഭിച്ച അതേ രൂപമാണ് ഇത് വളർച്ചാ നിരക്കിന്റെ വ്യതിയാനം മോണോഡ് സമവാക്യം നമുക്ക് നൽകി നിങ്ങൾക്കറിയാമോ കൾച്ചർ വളർച്ചാ നിരക്ക് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അടങ്ങിയത് ഇത് വളരെ വ്യത്യസ്തമാണ് ഇവിടെ മൈക്കിളിസ് മെന്റൻ എൻസൈം പ്രതിപ്രവർത്തനത്തിന്റെ നിരക്ക് മൈക്കിളിസ് മെന്റൻ രൂപത്തിൽ നടക്കുന്ന എൻസൈം പ്രതിപ്രവർത്തനം വീണ്ടും സബ്സ്ട്രേറ്റ് സാന്ദ്രത എന്നിങ്ങനെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വേരിയെഷൻ എന്ന ആശയം ഒരുപോലെ ആണ് പക്ഷേ ഇത് ഒരു എൻസൈം പ്രതികരണത്തിനുള്ളതാണ് അത് വളർച്ച കയ്നെറ്റിക്സ് ആണ് ഇവ രണ്ടും തമ്മിൽ നമ്മൾ ഒരു വ്യത്യാസം മനസിലാക്കണം കാരണം ആളുകൾ പലപ്പോഴും ഇവ തമ്മിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു അതിനാൽ ഒരേ തരത്തിലുള്ളത് ഇത് സമവാക്യത്തിന്റെ അതേ രൂപമായതിനാൽ ഒരേ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരയ്ക്കാം vm എന്നത് മാക്സിമം നിരക്ക് ആണ് അതായത് നിരക്ക് വർദ്ധിക്കുന്നു എന്നിട്ട് അസിംപ്റ്റോട്ടിക് മാക്സിമം റേറ്റ് vm കൈവരിക്കുന്നു കൂടാതെ K m നെ S കൊണ്ട് റീപ്ലേസ് ചെയുന്നു അപ്പോൾ നമുക്ക് ലഭിക്കുനത് v ഈക്വല്സ് S 2 S എന്നാണ് അതിനാൽ vm 2 ചെയ്യാം അതിനാൽ K m എന്നത് മറ്റൊന്നും അല്ല മറിച്ച് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് അതായത് നമുക്ക് ഹാഫ് മാക്സിമൽ റേറ്റ് കിട്ടുന്നത് മോനോട് സമവാക്യം പോലെ തന്നെ മോഡൽ പാരാമീറ്ററുകൾ vm Km ഇവ ലളിതമായ ഒരു എൻസൈം കയ്നെറ്റിക്സ് വിവരിക്കാൻ ആവശ്യമായ രണ്ട് മോഡൽ പാരാമീറ്ററുകളാണ് ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് അതു നിർണ്ണയിക്കാം അതായത് ഒരു ബാച്ച് റിയാക്ടറിലെ സമയവുമായി ബന്ധപ്പെട്ട സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈ പരീക്ഷണം ഒരു ബാച്ച് സാഹചര്യത്തിലാണ് ചെയ്യുന്നത് അതായത് ബാച്ച് റിയാക്ടർ നമ്മൾ S വേർസസ് t ഡാറ്റ ശേഖരിക്കുന്നു നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൈക്കിളിസ് മെന്റൻ സമവാക്യം എന്നത് v ഈക്വല്സ് v മാക്സ് Skm S vvmSKmS ഈ സമവാക്യം ഇൻവേർട്ട് ചെയ്യുക ആണെകിൽ ഇരുവശത്തും 1 ബൈ എടുക്കുക നമുക്ക് 1 v ഈക്വല്സ് l ഇൻവെർഷൻ ഓഫ് K m vmS S vmS എന്നാണ് KmvmS എന്നത് Kmvm1S ആകും ഇവിടെ S ക്യാൻസൽ ആകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് 1v എന്നാണ് 1vKmSvmSKmvm1S1vm അതിനാൽ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ y എന്നത് mx c ന് തുല്യമാണ് നമ്മൾ ഇത് y ആയി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത് x ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ m സ്ലോപ്പ് c ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കാം അതിനാൽ നമ്മൾ 1 v വേഴ്സസ് 1 S അതു S വേർസ്സ് t ഡാറ്റാ എന്നും നമുക്ക് Km vm എന്നത് ഒരു സ്ലോപ്പ് ആയി കിട്ടണം അതുപോലെ 1vm എന്നത് ഒരു ഇന്റർസെപ്റ്റ് ആണ് ഇങ്ങനെ ആണ് ഈ മോഡൽ പാരാമീറ്ററുകൾ വിലയിരുത്തുന്നത് ഇങ്ങനെ വിലയിരുത്തുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് അതിലേക്കു കടക്കണ്ട ഡാറ്റ നല്ലതാണെന്ന് നമുക്ക് അനുമാനിക്കാം കൂടാതെ ഡാറ്റയിൽ നമുക്ക് നല്ലൊരു വ്യാപനവുമുണ്ട് അതായത് ഔട്ട്ലയർ മൂല്യത്തെ ബാധിക്കുകയില്ല അതായത് ഇവിടെ സംസാരിക്കേണ്ട പ്രധാന പ്രശ്നം ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അൽപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതു നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ കഴിയും അതായത് S വേഴ്സസ് t data യിൽ നിന്ന് v കണക്കാക്കുക അതായത് S t എന്നിവയുടെ തുടർച്ചയായ രണ്ട് ഡാറ്റാ പോയിന്റുകൾ ഉപയോഗിച്ച് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമുക്ക് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഉണ്ട് ഇതിൽ റേറ്റ് ഡെൽറ്റ S ഡെൽറ്റ t ആണ് ഒരു ചെറിയ ഇന്റർവെലിൽ അതാണ് നമ്മൾ കണക്കാക്കുന്നത് കൂടാതെ ആ ഡെൽറ്റ S ഡെൽറ്റ t എന്നത് ടൈംന്റെ മിഡ്പ്പോയ്ന്റ് ആയി എടുക്കുന്നു അതായത് അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് നമുക്ക് ഡാറ്റ ഉള്ളപ്പോൾ ആവശ്യമായ പാരാമീറ്ററുകൾ ലഭിക്കുന്നതിന് നമ്മൾ സമ്പൂർണ്ണ ഡാറ്റ ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് പരീക്ഷണാത്മക ഡാറ്റയാണ് അതിനാൽ 1 v വേർസ്സ് 1 S ഉം നമുക്ക് ഇതുപോലുള്ള ഒരു വരി ലഭിക്കും Y ഇന്റർസെപ്റ്റ് എന്നത് 1 vm ഉം സ്ലോപ്പ് എന്നത് K m v m ഉം ആണ് മറ്റ് തരത്തിലുള്ള പ്ലോട്ടുകളും ഉപയോഗിക്കാം നമ്മൾ അതിലോട്ട് കടക്കണ്ട നമ്മുടെ ഏത് സ്റ്റാൻഡേർഡ് പുസ്തകവും അതായത് എൻസൈം കയ്നെറ്റിക്സ്ക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം അതു നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും അത് മറ്റ് പ്ലോട്ടുകളും നമുക്ക് നൽകും ഇപ്പോൾ ഒരു പ്രോബ്ലം നൽകാം നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം ഇതിന് നമ്മൾ ഇപ്പോൾ നോക്കിയ ആശയങ്ങൾ ആവശ്യമാണ് ചുരുക്കത്തിൽ നമ്മൾ ഈവ്യവസായത്തിൽ എൻസൈമുകളെ കുറിച്ചാണ് പ്രഭാഷണം 5 ആരംഭിച്ചത് എന്നിട്ട് നമുക്ക് താൽപ്പര്യമുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നതിനു ഒരു ബയോ റിയാക്ടറിൽ ഒരു എൻസൈം ഉപയോഗിക്കാമെന്നും നമ്മൾ പറഞ്ഞു അതാണ് നമ്മൾ വിശദമായി നോക്കുന്നത് എൻസൈം പ്രതിപ്രവർത്തനത്തിന്റെ കൈനെറ്റിക്സ് നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു Vm K m എന്നീ രണ്ട് പാരാമീറ്ററുകളുള്ള മൈക്കിളിസ് മെന്റൻ സമവാക്യത്തിന്റെ വ്യുൽപ്പന്നത്തിലൂടെ നമ്മൾ കടന്നുപോയി രൂപത്തിൽ ഇത് മോണോഡ് സമവാക്യവുമായി വളരെ സാമ്യമുള്ളതാണ് ഇത് വളർച്ചാ നിരക്കിന്റെ വ്യതിയാനത്തെ ഒരു സബ്സ്ട്രേറ്റ് സാന്ദ്രത ആയി പറയുന്നു ഇവിടെ ഇത് എൻസൈം വോളിയമെട്രിക് റേറ്റിന്റെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ നിന്നും ഉള്ള വ്യതിയാനം ആണ് പിന്നെ നമുക്ക് vm അതുപോലെ km കണ്ടു പിടിക്കാം അതായത് ഡാറ്റാ അത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും അതുപോലെ വ്യസ്ത്യസ്ത ടൈം അടിസ്ഥാനമാക്കി ഉള്ളത് അതും ഒരു ബാച്ച് സിസ്റ്റത്തിൽ നിന്നും ഉള്ളത് ലൈൻവീവർ ബുർകെ പ്ലോട്ട് ഉപയോഗിച്ച് ഉള്ളത് ഇപ്പോൾ ക്ലോസ്ഡ് എൻഡഡ് പ്രോബ്ലം പരിഹരിക്കുന്നതിന് നമ്മൾ അത്തരം ചില ആശയങ്ങൾ ഉപയോഗിക്കും ദയവായി ഇത് പരീക്ഷിക്കുക തീർച്ചയായും അടുത്ത പ്രഭാഷണത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം ചോദ്യം ഇപ്രകാരമാണ് ഒരു വ്യവസായ ശാസ്ത്രജ്ഞൻ കൃഷി സമയത്ത് കോശങ്ങളുടെ കൾച്ചറിന്റെ ഫലമായുണ്ടാകുന്ന ഒരു വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനുള്ള ഒരു പുതിയ രീതി പഠിക്കുന്നു വിഷവസ്തു കുറയ്ക്കുന്നതിലൂടെയും റി സർക്യൂലേറ്റ് ചെയ്യുന് നത്തിലൂടെയും കോശങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം 7 5 മില്ലിമോളറിൽ താഴെയാണെങ്കിൽ വിഷവസ്തു കോശങ്ങളുടെ വളർച്ചയെ ബാധിക്കില്ല അവർ പഠിക്കുന്ന പ്രത്യേക വിഷവസ്തു X അതിനു അവൾക്ക് ധാരാളം രഹസ്യ സ്വഭാവങ്ങൾ ഉണ്ട് അതിനെ എൻസൈമാറ്റികലി ബ്രേക്ക് ചെയാം അതായത് എൻസൈം E ഉപയോഗിച്ച് വീണ്ടും രഹസ്യങ്ങൾ 2 പിഎച്ച് 30 ഡിഗ്രി സിയിൽ ബ്രേക്ക്ഡൌൺ പഠിക്കുകയും ബാച്ച് സാഹചര്യങ്ങളൽ ഇനിപ്പറയുന്ന ഡാറ്റ നേടുകയും ചെയ്തു ടൈം X നിന്നും ഉള്ള വ്യതിയാനമാണിത് X ഇവിടെയുള്ള സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ പഠിക്കുന്ന ബ്രേക്ക്ഡൌൺ ടൈം 0 ഇൽ ഇത് 5 പോയിന്റുകൾ നൽകുന്നു ഇത് 20 മില്ലിമോളാർ ആണ് ടൈം 10ഇൽ ഇത് 17 7 മില്ലിമോളർ നൽകുന്നു പാർട്ട് A ഈ എൻസൈമാറ്റിക് ഡീഗ്രേഡേഷനായി മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ നിർണ്ണയിക്കുക പിന്നെ B മൊത്തം എൻസൈം സാന്ദ്രത മൂന്നിരട്ടിയാണെങ്കിൽ മീഡിയം എന്തായിരിക്കും 30 മിനിറ്റിനുശേഷം മീഡിയത്തിൽ X വിഷാംശം അടങ്ങിയിരിക്കും പ്രഭാഷണം 5 അവസാനിപ്പിക്കുന്നതിനുള്ള സമയം ആയെന്നു ഞാൻ കരുതുന്നു നമ്മൾ വീണ്ടും പ്രഭാഷണം 6ഇൽ കണ്ടുമുട്ടും നമുക്ക് അവിടെ കാണാം